ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇന്ന് ഞാൻ നഗരങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പൊരുത്തപ്പെടുത്തൽ ലഘൂകരണം എന്നിവയെക്കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം ഞാൻ നിങ്ങൾക്ക് നൽകും കൂടാതെ വിവിധ നഗരങ്ങൾക്ക് അതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്നതിനെക്കുറിച്ചും അവർ ഏത് തരത്തിലുള്ള പൊരുത്തപ്പെടുത്തലിനും ലഘൂകരണത്തിനുമുള്ള തന്ത്രങ്ങളാണ് വികസിപ്പിച്ചെടുക്കുന്നതെന്നും ഞങ്ങൾ സംസാരിക്കും ഈ സമീപനങ്ങളെ കുറിച്ചുള്ള വിമർശനാത്മക ധാരണ കുറവാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ കാലാവസ്ഥ എന്താണ് കാലാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയോടെ നമുക്ക് ചർച്ച ആരംഭിക്കാം മാർക്ക് ട്വെയിൻ ലളിതമായി പറയുന്നത് ക്ലൈമറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെതർ ആണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ മിസിസിപ്പിയിലേക്കാണ് പോകുന്നതെന്നോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കോ ആർട്ടിക് സർക്കിൾ പ്രദേശങ്ങളിലേക്കോ പോകുകയാണെന്ന് സങ്കൽപ്പിക്കുക ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന് അത് നിങ്ങളോട് പറയും അതിനാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് 20 30 ഡിഗ്രി വരെ നേരിടേണ്ടി വന്നേക്കാവുന്ന കഠിനമായ ജീവിത സാഹചര്യങ്ങൾക്കായി നിങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങണം അതിനാൽ ആ രീതിയിൽ ഒരു പ്രാദേശിക തല ധാരണ നിങ്ങൾക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ നൽകും ഒരു കാലാവസ്ഥയിൽ എല്ലാ ദിവസവും ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു നാളെ മഴ പെയ്യാൻ പോകുന്നുണ്ടോ ഇന്ന് സൂര്യപ്രകാശം ലഭിക്കുമോ ഇന്ന് സൂര്യപ്രകാശം ലഭിക്കുമോ ഇന്നത്തെ ദിവസം ശരിയാണോ അതിനാൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു നിർമ്മാണ വകുപ്പിൽ പോലും പ്ലാൻ ചെയ്യാൻ കഴിയും കാരണം പകൽ വെളിച്ചം ഒരു പ്രധാന വശമാണ് അതിനാൽ കാലാവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാലാവസ്ഥാ പ്രവചനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു 2 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെയുള്ള സാറ്റലൈറ്റ് ഇമേജറി പോലും കാലാവസ്ഥ എന്തായിരിക്കുമെന്നതിന്റെ ഏറ്റവും അടുത്ത സ്ഥിതിയെങ്കിലും അവ നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ കാലാവസ്ഥ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ശരാശരി കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു അത് വർഷങ്ങളോളം കണക്കിലെടുക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് മിനസോട്ടയിലെ കാലാവസ്ഥ ശൈത്യകാലത്ത് തണുത്തതും മഞ്ഞുവീഴ്ചയുള്ളതുമാണ് ഹൊണോലുലു ഹവായ് എന്നിവിടങ്ങളിൽ വർഷം മുഴുവനും ചൂടും ഈർപ്പവുമാണ് അതിനർത്ഥം അത് വർഷങ്ങളുടെ കണക്ക് എടുത്തിട്ടുണ്ടെന്നാണ് അവിടെയാണ് ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥകൾ മിതശീതോഷ്ണ കാലാവസ്ഥകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതുപോലെ ആഗോളതലത്തിൽ അവ വിഭജിക്കപ്പെടുന്ന വിധത്തിൽ ഞങ്ങൾ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ നമ്മൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥാ സ്കെയിലുകളുണ്ട് ഉദാഹരണത്തിന് മിഡ്വെസ്റ്റ് അല്ലെങ്കിൽ ഹവായ് പോലുള്ള ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ റീജിയണൽ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഒരു പ്രത്യേക മേഖലയെക്കുറിച്ചോ ഒരു പ്രത്യേക പ്രദേശത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് റീജിയണൽ ക്ലൈമറ്റിനെ സൂചിപ്പിക്കുന്നു അതേസമയം ലോകമെമ്പാടുമുള്ള ശരാശരി കാലാവസ്ഥയെ ഗ്ലോബൽ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആഗോള കാലാവസ്ഥയുടെ ഒരു ഡിഗ്രി ഉയർച്ചയെക്കുറിച്ചാണ് അതിനാൽ അവിടെയാണ് ആഗോള കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ പദങ്ങൾ ഇവയാണെന്ന് ഞാൻ കരുതുന്നു കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒപ്പം കാലാവസ്ഥയും എല്ലാ ദിവസവും ടിവി വാർത്താ ചാനലുകൾ ഓണാക്കുമ്പോൾ അവസാന 3 4 മിനിറ്റെങ്കിലും കാലാവസ്ഥാ റിപ്പോർട്ടർ വന്ന് നിങ്ങളുടെ പ്രദേശത്തോ രാജ്യത്തോ കാലാവസ്ഥാ പ്രവചനം എന്താണെന്നും അത് എങ്ങനെയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റാണ് പ്രദേശത്തിന്റെ ഏത് ഭാഗത്ത് നേരിടാൻ പോകുന്നത് അങ്ങനെ അത് കമ്മ്യൂണിറ്റികൾക്ക് സ്വയം തയ്യാറെടുക്കാൻ ഒരു ജാഗ്രതാ സാഹചര്യം നൽകും എന്നാൽ ഇപ്പോൾ ഋതുക്കളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മുടെ മുത്തച്ഛന്റെ കാലമോ പിതാവിന്റെ കാലമോ നമ്മുടെ തലമുറയിലെങ്കിലും വളരെ നല്ല വൈവിധ്യം കാണാമായിരുന്നു ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സീസണുകളിൽ നല്ല വ്യത്യാസം കാണാൻ കഴിഞ്ഞു അതിന്റെ ഭൂപ്രകൃതിയുടെ നിബന്ധനകൾ അതിന്റെ സസ്യജാലങ്ങളുടെ കാര്യത്തിൽ അതിന്റെ ജന്തുജാലങ്ങളുടെ കാര്യത്തിൽ അതിന്റെ ജന്തുജാലങ്ങളുടെ കാര്യത്തിൽ പ്രകൃതിയുടെ കാര്യത്തിൽ കാരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അവർ ഇതിനെ 6 സീസണുകൾ എന്ന് വിളിക്കുന്നു ചില സ്ഥലങ്ങളിൽ അവർ 8 സീസണുകൾ എന്ന് വിളിക്കുന്നു കാരണം പരിവർത്തന സമയത്തിന്റെ ശൈത്യകാല സാഹചര്യങ്ങൾ കാരണം അതിനാൽ മഞ്ഞ് സമയം മഞ്ഞ് ഐസ് അവസ്ഥകൾ എന്നിവ നിങ്ങൾക്കറിയാം അവ ഒരു പ്രകൃതിയിൽ നിന്ന് മറ്റൊരു പ്രകൃതിയിലേക്ക് എങ്ങനെ രൂപാന്തരപ്പെടുന്നു മുഴുവൻ ഭൂമിശാസ്ത്രപരമായ ക്രമീകരണവും എന്നാൽ അടുത്ത കാലത്തായി ഈ വ്യത്യാസം ക്രമേണ കുറഞ്ഞുവരുന്നതായി നമ്മളിൽ എത്രപേർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ സ്കാൻഡിനേവിയ സ്വീഡൻ പോലുള്ള ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വടക്കോട്ട് പോയാൽ ഏകദേശം 8 മാസത്തോളം മഞ്ഞ് മൂടിയിരിക്കും വർഷം എന്നാൽ ഇപ്പോൾ അത് ക്രമേണ ഒരു വർഷത്തിൽ 6 മാസം ആയി അതിനാൽ ഭാവിയിൽ ഇത് ഒരു വർഷത്തിൽ 4 മാസം വരെ വന്നേക്കാം അതിനർത്ഥം സീസൺ ദൈർഘ്യം സീസൺ വ്യത്യാസങ്ങൾ വളരെ സൂക്ഷ്മമായ മാറ്റങ്ങളാണ് അതുപോലെ തന്നെ വസന്തകാലവും വേനൽക്കാലവും ഒരുപോലെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു കാർട്ടൂണാണിതെന്ന് ഞങ്ങൾ കാണുന്നു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ശൈത്യകാലത്ത് ഒരു വീഴ്ചയുണ്ട് അതിനാൽ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആഗോള താപനില ഏകദേശം 1 ഡിഗ്രി വർധിച്ചതിനെക്കുറിച്ചാണ് അതിനാൽ നമുക്ക് നേരത്തെ നോക്കാം നിങ്ങൾ ചരിത്രം നോക്കിയാൽ ഭൂമി മുഴുവൻ മഞ്ഞ് കൊണ്ട് പരാമർശിച്ചിരിക്കുന്നു സ്നോബോൾ ഭൂമിയും ഏകദേശം 20000 വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ മഞ്ഞുപാളികളും അര മൈൽ മഞ്ഞിലായിരുന്നു ഇന്ന് ക്രമേണ കുറയുന്ന ആ മഞ്ഞ് മൂടുന്നത് ഞങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഹിമാലയത്തിന്റെ അവസ്ഥ എടുക്കുക ഹിമാനി രൂപങ്ങൾ നിങ്ങൾ ആർട്ടിക് സർക്കിളിലെ ഐസ് എങ്ങനെ ഉരുകുന്നു എന്നതിന്റെ അവസ്ഥ എടുക്കുന്നു അങ്ങനെ ഇന്നത്തെ തലമുറ ഞങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആഗോള താപനിലയുടെ മൈനസ് 2 ഡിഗ്രിയെയും ശരാശരി മൈനസ് 1 1 ഡിഗ്രി മാറ്റത്തെയും കുറിച്ചാണ് ഇതാണ് ആഘാതം ഇപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം പ്ലസ് 1 ഇതിന് എന്ത് സംഭവിക്കും ഇത് പ്ലസ് 2 ആണെങ്കിൽ എന്താണ് അതിനാൽ ഹിമാനികൾ സസ്യങ്ങൾ ധ്രുവങ്ങൾ എന്നിവ നിങ്ങൾക്കറിയില്ല അതിനാൽ എല്ലാത്തിനും വളരെ വിനാശകരമായ മാറ്റമുണ്ടാകും അതിനാൽ ഇത് 1 ഡിഗ്രി താപനിലയെക്കുറിച്ചുള്ള ഒരു ധാരണ മാത്രമാണ് അത് നമ്മുടെ ആഗോള പരിസ്ഥിതിയിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും അങ്ങനെയാണ് കഴിഞ്ഞ ഹിമയുഗത്തിന്റെ ഏറ്റവും തണുപ്പുള്ള ഭാഗത്ത് ഭൂമിയുടെ ശരാശരി താപനില 4 5 ഡിഗ്രി സെൽഷ്യസ് 20 ാം നൂറ്റാണ്ടിലെ മാനദണ്ഡത്തിന് താഴെയാണ് നമുക്ക് ഒരു ഐസ് ഏജ് യൂണിറ്റിൽ 4 5 ഡിഗ്രി വ്യത്യാസം എന്ന് വിളിക്കാം ഇപ്പോൾ ഈ മുഴുവൻ മാറ്റവും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ആഘാതം നമ്മൾ എന്തിന് ഈ വിഷയത്തിൽ വിഷമിക്കണം ഇത് ഒരു അടിസ്ഥാന ധാരണയിൽ നിന്നുള്ള ഒരു കാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഹരിതഗൃഹ വാതക ഉദ്വമനത്തെക്കുറിച്ചും എനിക്ക് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഭൂമിയുണ്ട് പിന്നെ നമുക്ക് അന്തരീക്ഷ വലയമുണ്ട് ഇതാണ് അന്തരീക്ഷം ഇവിടെ ഈ സമുദ്രങ്ങളും ഭൂപ്രദേശങ്ങളും ഊർജ്ജത്തിന്റെ പ്രധാന ഉറവിടവും സൂര്യനാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു ഇതാണ് ഹരിതഗൃഹ വാതകം ഇത് ഈ അന്തരീക്ഷ പാളിയുടെ ഒരു പാളിയാണ് പിന്നെ ഒരു കാര്യം ഇതിൽ നിന്ന് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇത് ഒരു തരം ഹ്രസ്വ ഇൻഫ്രാറെഡ് വികിരണമാണ് തുടർന്ന് ഇത് വീണ്ടും പ്രതിഫലിക്കുന്നു ഒരു നീണ്ട ഇൻഫ്രാറെഡ് ഉണ്ട് ചെറുതും വലുതുമായ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ഉണ്ട് അത് എങ്ങനെ പ്രതിഫലിക്കുന്നു ഈ പ്രക്രിയയിൽ നേരിട്ടുള്ള വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കുന്നു അതിനാൽ ഈ പാളി യഥാർത്ഥത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യ ഇടപെടലുകളാൽ നാം ഇന്ന് ജീവിക്കുന്ന രീതി നാം ഒരു ആശ്രിത സമൂഹമായി ജീവിക്കുന്ന രീതി ഇപ്പോൾ ഭൂമിയിലെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഫോസിൽ ഇന്ധന ഉപഭോഗത്തിന്റെ വർദ്ധനവ് നമ്മുടെ CO2 ഉം വ്യത്യസ്ത വാതകങ്ങളും എടുക്കുന്നു അന്തരീക്ഷ അവസ്ഥകളിലേക്ക് എത്തുന്ന വ്യത്യസ്ത വാതകങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ സംസാരിക്കുന്ന CO2 കാർബൺ ഡൈ ഓക്സൈഡ് കാരണം വ്യാവസായികത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ പിന്നെ എല്ലാ വ്യവസായങ്ങളിൽ നിന്നും വരുന്ന പുക അതുപോലെ തന്നെ നമ്മൾ ഉള്ള ഇന്ധനങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും വിവിധ വ്യാവസായിക മേഖലകളും അങ്ങനെയായിരുന്നു ഇത് ഏകദേശം 7 ജിഗാ ടൺ പ്രതിവർഷം വരുന്നുണ്ട് അതായത് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലുപ്പം 2000 ദശലക്ഷം ആനകളുടെ വലുപ്പം ആണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ അത് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 30 54 7 വരെ ഒരു മീഥെയ്ൻ പോകുന്നു തുടർന്ന് നിങ്ങൾക്ക് മറ്റ് നൈട്രസ് ഓക്സൈഡും ഫ്ലൂറിനേറ്റഡ് വാതകങ്ങളും ഉണ്ട് അതുപോലെ മറ്റ് വാതകങ്ങളും ഇപ്പോൾ ബാഷ്പീകരിക്കപ്പെടാൻ എത്ര സമയമെടുക്കും അതിനാൽ CO2 ന്റെ അതേ അളവിനേക്കാൾ 20 മടങ്ങ് കൂടുതൽ ചൂട് ഇതിന് ഏകദേശം 12 വർഷമെടുക്കും ഇത് 50 മുതൽ 1000 വർഷം വരെ എടുക്കും അതിനാൽ ഇപ്പോൾ നൈട്രസ് ഓക്സൈഡ് 114 വർഷമെടുക്കുകയും അതേ അളവിലുള്ള CO2 ന്റെ 298 മടങ്ങ് കൂടുതൽ ചൂട് പുറത്തുവിടുകയും ചെയ്യുന്നു അതിനാൽ ഇതാണ് ശാസ്ത്രീയ വസ്തുതകൾ സംസാരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർഗവൺമെന്റൽ പാനലിൽ നിന്നുള്ള നാലാമത്തെ വിലയിരുത്തൽ റിപ്പോർട്ടിൽ നിന്നുള്ളതാണ് അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു CO2 ഇപ്പോഴും അതിനെ തടയുന്നു അതിനാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് റേഡിയേഷനുകൾ വരുന്നു പിന്നീട് ഇവ പുറത്തേക്ക് പോകുന്നില്ല അത് തിരികെ വരുന്നു അതിനാൽ ഈ ഭാഗം മുഴുവൻ നിങ്ങളുടെ കുടലിന്റെ മുകളിൽ ഒരു മൂടുപടം വച്ചതുപോലെ ആയിത്തീർന്നു എന്നിട്ട് അത് തിളച്ചുമറിയാൻ തുടങ്ങി അത് ചൂട് സൃഷ്ടിക്കുന്നു ഇവിടെയാണ് സമുദ്രങ്ങൾ ചൂടാകുന്നത് കാരണം ചൂട് വീണ്ടും വീണ്ടും വരുന്നതിനാൽ അത് മുന്നോട്ട് പോകുന്നില്ല അത് വ്യാപിക്കുന്നില്ല കാരണം ഈ പാളി ഒരു തൊപ്പി പോലെയാണ് സമുദ്രങ്ങളിലേക്ക് ചൂട് ഇറങ്ങുമ്പോൾ സമുദ്രങ്ങൾ ചൂടാകുകയും അതുപോലെ തന്നെ അത് ഹിമാനികളിലേക്ക് എത്തുകയും അത് മഞ്ഞ് ഉരുകുകയും ചെയ്യുന്നു മഞ്ഞ് ഉരുകുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വീണ്ടും സമുദ്രനിരപ്പിലേക്ക് ഉയരുന്നു ഇത് ആഗിരണം ചെയ്യുന്നു ഈ മഞ്ഞും ഐസും ഉരുകുന്നത് ഇതാണ് ഭൂമി കൂടുതൽ ഊർജ്ജം ആഗിരണം ചെയ്യുന്നത് വീണ്ടും അത് ഇതിലേക്ക് പ്രതിഫലിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഗ്രീൻഹൌസ് ഗ്യാസ് ട്രാപ് എനർജി കൂടാതെ ഇതിന് വരൾച്ചയും കാട്ടുതീയും ഉണ്ട് കൂടാതെ ഇത് സസ്യജന്തുജാലങ്ങളെയും ബാധിക്കുന്നു ഇത് പവിഴപ്പുറ്റുകളെ ബാധിക്കുന്നു അത് ജലവ്യവസ്ഥയെ പരോക്ഷമായി ബാധിക്കും അത് നിങ്ങൾക്ക് അറിയാവുന്ന മനുഷ്യ വ്യവസ്ഥകളെ ബാധിക്കും ഇത് പ്രവർത്തിക്കുന്നത് എയിൽ മാത്രമല്ല സമുദ്രങ്ങൾ ചൂടാകുന്നതിന്റെയും മഞ്ഞ് ഉരുകുന്നതിന്റെയും ഒരു ഭാഗം പക്ഷേ അതിന് നിരവധി വിനാശകരമായ അവസ്ഥകൾ ഉണ്ടാകും ഇവിടെയാണ് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവസ്ഥയിലെ മാറ്റം അതുപോലെ പക്ഷികളുടെ കുടിയേറ്റവും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരുന്ന പക്ഷികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞുവരുന്നു അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സീസണൽ പാറ്റേണുകളും ഇവിടെയാണ് നമ്മൾ ആവാസവ്യവസ്ഥയുടെ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വംശനാശത്തിനും സാധ്യതയുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഗ്രീൻ ഹൌസ് ഗ്യാസ് ട്രാപ് എനർജി സംവിധാനങ്ങളെക്കുറിച്ചും ഉള്ള അടിസ്ഥാന ധാരണ ഇതാണ് അതിനാൽ ഒരു വശം ഞങ്ങൾ CO2 പമ്പ് ചെയ്യുന്നു അതിനെ ഒരു കവർ പാളിയാക്കി മാറ്റുന്നു മുഴുവൻ ഊർജ്ജവും ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു തുടർന്ന് അത് സമുദ്രങ്ങൾ ചൂടാക്കുന്നു അത് മഞ്ഞ് ഉരുകുന്നു അതാകട്ടെ പരോക്ഷമായ പ്രത്യാഘാതങ്ങളും പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രത്യാഘാതങ്ങൾ പ്രകൃതിദത്ത വ്യവസ്ഥകൾക്കും മനുഷ്യ വ്യവസ്ഥകൾക്കും നൽകുന്നു ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബേർഡ് ആൻഡ് മൂൺ സ്റ്റോറി നിങ്ങൾക്കറിയാം ഇത് ഒരു പ്രകൃതിയാണെന്ന് അവർ പറഞ്ഞു പ്രകൃതിയെ മനസ്സിലാക്കുന്നത് വളരെ സങ്കീർണ്ണമായ ഒരു പ്രതിഭാസമാണ് കാരണം ഓരോന്നും മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് വ്യക്തിഗതമല്ല അത് ഒരു ഒറ്റപ്പെട്ട വശമല്ല അതിനാൽ ഇപ്പോൾ ഈ ചിത്രശലഭങ്ങൾ വടക്ക് നിന്ന് പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ തണുത്ത പ്രദേശങ്ങളിൽ ആയിരിക്കാം ഇപ്പോൾ തണുപ്പില്ല അവ ചൂടാകുകയാണ് അതിനാൽ ഇപ്പോൾ ദേശാടന ഇനം വാസ്തവത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പുലിക്കാട്ട് തടാകത്തിൽ പോയാൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് കുടിയേറുന്ന ഇനങ്ങളുടെ എണ്ണം കുറഞ്ഞു അതുപോലെ രാജസ്ഥാനിൽ ദേശാടന പക്ഷികൾ കുറയുന്നു ജലസ്രോതസ്സുകൾ കുറയുന്നതിനാൽ പക്ഷികളുടെ എണ്ണം കുറയുന്നു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചലനങ്ങളിലും സസ്യജന്തുജാലങ്ങളിലും ആഘാതം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നില്ലെങ്കിൽ ഉൽപ്പാദനം ഉൽപ്പാദന മേഖലയിലും സ്വാധീനം ചെലുത്തും അണ്ണാൻ പോലുള്ള പർവത ജീവികളും എല്ലാം ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കയറുന്നു കാലാവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ജീവികളെ വ്യത്യസ്തമായി ബാധിക്കുന്നു ഇത് ഒരേ വഴിയല്ല ഒരു 2 പക്ഷികളെ ബാധിക്കും ജൈവ സ്വഭാവത്തിന്റെ സ്വഭാവം കാരണം അവ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ബന്ധങ്ങളിൽ മാറ്റം വരുത്താനും ഇതിന് കഴിയും അതിനാൽ ഞങ്ങൾ ഡാർവിന്റെ സിദ്ധാന്തത്തെക്കുറിച്ചും ഇക്കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഒരു പ്രത്യേക ജീവിവർഗത്തിന്റെ നിറവും മാറുന്നു ജിറാഫിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുപോലെ സ്വഭാവവും അത് എങ്ങനെ മാറിയിരിക്കുന്നു ഇന്ന് നീളമുള്ള കഴുത്തുള്ള ജിറാഫ് അത് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അതിനർത്ഥം ഇവയെല്ലാം അക്കാലത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ചില തെളിവുകളാണ് ഇന്ന് നമ്മൾ ഒരു സ്പീഷിസായി കാണുന്നത് യഥാർത്ഥമായ ഒന്നല്ല നിങ്ങൾക്ക് അറിയാവുന്ന സംഘർഷങ്ങൾക്കും ഇത് കാരണമാകും ഇങ്ങനെയാണ് ഒരു വലിയ സംവിധാന ചക്രം അവിടെയുള്ളത് ആഗോളതാപനം യഥാർത്ഥമാണെന്ന് പല ശാസ്ത്രജ്ഞരും വാദിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ചിലർ വാദിക്കുന്നു തെളിവുകളൊന്നുമില്ല അത് യാഥാർത്ഥ്യമല്ലെന്ന് തെളിയിക്കുക പക്ഷേ നിങ്ങൾക്ക് വ്യത്യസ്തമായ തെളിവുകൾ ഉണ്ട് എന്നതാണ് കാര്യം ഒന്ന് കടൽ ഉരുകുന്നു വനം വളരെ ചൂടാകുന്നു കാരണം ഒരു വശത്ത് വനനശീകരണവും നടക്കുന്നു കാരണം ഒന്നുകിൽ അവർ കൃഷിരീതികൾ മെച്ചപ്പെടുത്തുകയോ റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾക്കോ അതിന്റെ ഭൂവിനിയോഗ വശങ്ങൾക്കോ വേണ്ടി പോകുന്നു അങ്ങനെ അത് കാടിനെയും കടലിനെയും നശിപ്പിച്ച് നഗരത്തെ തിന്നുതീർക്കുന്നതായി മാറി അതുവഴി വിവിധ വ്യാവസായിക മലിനീകരണം കാരണം നിങ്ങളുടെ പവിഴപ്പുറ്റുകളും നശിപ്പിക്കപ്പെടുന്നു ഇത് വെള്ളത്തിനുള്ളിൽ സംഭവിക്കുന്നതും ജലവ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ് അതിനാൽ ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് ആശങ്കാകുലരായി സമൂഹങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കാകുലരായി രാഷ്ട്രീയക്കാർ അതിനെക്കുറിച്ച് ആശങ്കാകുലരായി അതിനാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഇപ്പോൾ ആശങ്കയുള്ള ഒരു വലിയ സ്ഥാപനമുണ്ട് പക്ഷേ ഇത് വളരെ കഠിനമായ കാര്യമല്ല പക്ഷേ ഇത് വരൾച്ചയെ കുറിച്ച് പറയുമ്പോൾ വളരെ സാവധാനത്തിലുള്ള ഒരു പ്രക്രിയയിൽ വരുന്നു അത് ഇന്ന് മാത്രമല്ല അത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന വർഷങ്ങളും വർഷങ്ങളും ആയിട്ടാണ് ഇത് വരുന്നത് കൂടാതെ രസകരമായ ഒരു ചിത്രമുണ്ട് ഡൽഹി സഫാരി എന്ന് വിളിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ ആണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ആശങ്കകൾ മൃഗങ്ങൾ കാണിക്കുന്നതെങ്ങനെയെന്നും അവയുടെ ആവാസവ്യവസ്ഥയെക്കുറിച്ച് അവർ യഥാർത്ഥത്തിൽ എങ്ങനെ ശബ്ദമുയർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും നഗരത്തിന്റെ കൈയേറ്റങ്ങളിൽ നിന്ന് സ്വയം എങ്ങനെ സംരക്ഷിക്കാമെന്നും അവർ സംസാരിച്ചു അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വളരെ രസകരമാണ് ഇതാണ് വനനശീകരണം നടത്തുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അവർ മരങ്ങൾ വെട്ടിമാറ്റുന്നു തുടർന്ന് മൃഗങ്ങൾ ആശങ്കാകുലരായി അവർ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകാൻ തുടങ്ങി അവർ ഒരുതരം പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്നു ആ രീതിയിൽ വിവിധ സിനിമകളിലൂടെയുള്ള ചില ആശങ്കകൾ ഇവയാണ് നമ്മുടെ ഭാവി എന്തായിരിക്കുമെന്ന് ആളുകൾ ഇപ്പോൾ ബോധവാന്മാരാകുകയാണ് ഒരു ആർക്കിടെക്റ്റിനെയോ നിർമ്മാതാവിനെയോ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് മാത്രമല്ല സമുദ്രം ഉയരുന്നതിനാൽ ഇത് ബാധിക്കുകയും ചില വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാത്രമല്ല ഇത് വിപണിയെയും ബാധിച്ചേക്കാം റിയൽ എസ്റ്റേറ്റ് വിപണികളെ അത് സാമ്പത്തിക വിപണിയെയും ബാധിക്കും അതിനാൽ ഇത് മനുഷ്യ ആവാസവ്യവസ്ഥയെ മാത്രമല്ല മുഴുവൻ വ്യവസ്ഥയെയും ബാധിക്കുന്നു സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്നു വിപണി സംവിധാനത്തെയും ബാധിക്കുന്നു ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ 2 വശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഒന്ന് മിറ്റിഗെഷൻ അടുത്തത് അഡാപ്റ്റേഷൻ നാം മിറ്റിഗെഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊരുത്തപ്പെടുത്തൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദീർഘകാല അപകടസാധ്യതകളും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഉള്ള അപകടങ്ങളും ശാശ്വതമായി ഇല്ലാതാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഉള്ള ഏതൊരു നടപടിയുമാണ് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്റർഗവൺമെന്റൽ പാനലായ IPCC ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടങ്ങൾ കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ സിങ്കുകൾ വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള ഒരു നരവംശ ഇടപെടലായി ലഘൂകരണത്തെ നിർവചിക്കുന്നു അവിടെയാണ് നമ്മൾ ഇപ്പോൾ വിവിധ ചട്ടക്കൂടുകൾ വിവിധ കൺവെൻഷനുകൾ വിവിധ അജണ്ടകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാന കൺവെൻഷനുവേണ്ടിയുള്ള UNFCCC ചട്ടക്കൂടിനെക്കുറിച്ചും അജണ്ട 21 ക്യോട്ടോ പ്രോട്ടോക്കോളിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്നു അതിനാൽ യഥാർത്ഥത്തിൽ ആഗോള തലത്തിൽ പ്രവർത്തിക്കാൻ ധാരാളം അതുപോലെ തന്ത്രങ്ങളുണ്ട് ഒപ്പം ക്ലൈമറ്റ് അഡാപ്റ്റേഷനും കാലാവസ്ഥാ വ്യതിയാനവും തീവ്രതയും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സിസ്റ്റത്തിന്റെ കഴിവുകളെ ഇത് സൂചിപ്പിക്കുന്നു സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ മിതമായതിലേക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടുക നോക്കൂ നമ്മൾ എന്തിനാണ് പൊരുത്തപ്പെടേണ്ടത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ തന്നെ നമുക്ക് തടയാനാകുമോ നമുക്ക് കഴിയില്ല ഇത് പ്രകൃതിയുടെ നിയമമായതിനാൽ പ്രകൃതിയുടെ നിയമമനുസരിച്ച് എല്ലാവരും ജനിക്കുന്നു എല്ലാവരും മരിക്കും എല്ലാ നിസ്സാര കാര്യങ്ങളും ഒരു ജന്മം നൽകും അത് മരിക്കും എന്നാൽ ചില തത്ത്വചിന്തകളിൽ അത് പുനർജന്മത്തെക്കുറിച്ചും സംസാരിക്കുന്നു ശരിയാണ് എന്നാൽ മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനാൽ നിങ്ങൾ മരിക്കുന്നില്ലെങ്കിൽ അത് പ്രകൃതിയുടെ നിയമത്തിന് എതിരാണ് വസ്തു മരിക്കുന്നില്ലെങ്കിൽ അത് പ്രകൃതി നിയമത്തിന് എതിരാണ് അതിനാൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സുസ്ഥിര വികസന അജണ്ടകളുടെ പേരിലാണ് അല്ലെങ്കിൽ അത് മറ്റെന്താണ് ഞങ്ങൾ ആ ജീവിതം നീട്ടാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കുറച്ചുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ഭൂമിയെ കൂടുതൽ കാലം ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു കുറച്ച് കാലം ഇവിടെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നേരിടാനും ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പുതിയതോ മാറുന്നതോ ആയ പരിതസ്ഥിതിയിൽ പ്രകൃതിയിലോ മാനുഷികമോ ആയ സംവിധാനങ്ങളിലെ ക്രമീകരണത്തെക്കുറിച്ച് IPCC പറയുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടൽ ഇത് യഥാർത്ഥമോ പ്രതീക്ഷിക്കുന്നതോ ആയ കാലാവസ്ഥാ ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ ദോഷത്തെ മിതമായതോ പ്രയോജനകരമായ അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നതോ ആയ അവയുടെ ഫലങ്ങളോടുള്ള പ്രതികരണമായി പ്രകൃതിദത്തമായ മനുഷ്യ സംവിധാനങ്ങളിലെ ക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ആന്റിസിപ്പേറ്ററി റിയാക്ടീവ് അഡാപ്റ്റേഷൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അഡാപ്റ്റേഷൻ ഓട്ടോണോമിസ് പ്ലാൻഡ് അഡാപ്റ്റേഷൻ എന്നിവയുൾപ്പെടെ വിവിധ തരം പൊരുത്തപ്പെടുത്തലുകൾ വേർതിരിച്ചറിയാൻ കഴിയും അതിനാൽ ഇത് IPCC സംസാരിക്കുന്ന ഒരു തരത്തിലുള്ള പൊതുവായ നിർവചനമാണ് എന്താണ് തന്ത്രങ്ങൾ 1992 ൽ റിയോ ഡി ജനീറോയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക് കൺവെൻഷൻ നടന്നു അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള 3 വ്യവസ്ഥകൾ ഇതിന് ആവശ്യമാണ് 1980 കളിലെ ഹരിതഗൃഹ വാതക ഉദ്വമനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മിക്കവാറും ഒരു ശാസ്ത്രജ്ഞനെ ആശങ്കപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ 90 കളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അത് സാമൂഹികതയിലേക്കും നീങ്ങി സാമൂഹിക പരിഗണനയും രാഷ്ട്രീയ ആശങ്കയും എന്നാൽ ഇപ്പോൾ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നിയമപരമായ ഒരു ആശങ്കയും കുറച്ചുകൂടി സംസാരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി സ്വാഭാവികമായി പൊരുത്തപ്പെടാൻ പരിസ്ഥിതി വ്യവസ്ഥകളെ അനുവദിക്കുന്നതിന് മതിയായ സമയപരിധിക്കുള്ളിൽ ഇത് നടക്കണം എന്ന നമ്പർ 1 വ്യവസ്ഥയാണ് ഇവിടെയാണ് ടൈം ഡിമെൻഷൻ അതിനാൽ ഭക്ഷ്യോൽപ്പാദനത്തിന് ഭീഷണിയില്ല അതിനാൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ എത്രപേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന എംപി പോലുള്ള ഒരു സംസ്ഥാനം പോലും ഉൽപാദനം പര്യാപ്തമല്ല അവർക്ക് ഗോതമ്പ് ലഭിക്കുന്നു ഓസ്ട്രേലിയയിലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ അതായത് നമ്മൾ ഉൽപ്പാദനത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്വയം സുസ്ഥിരമായ ഉൽപ്പാദനം ഇല്ല സാമ്പത്തിക വികസനം സുസ്ഥിരമായ രീതിയിൽ മുന്നോട്ട് പോകണം അതിനാൽ എല്ലാം ഒരു സാമ്പത്തിക വശമാണ് സാമ്പത്തിക മാനേജ്മെന്റ് സുസ്ഥിരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനാൽ ഒരു 3 കാര്യങ്ങൾ ഉണ്ട് ഒന്ന് പ്രകൃതിദത്തമായി ആവാസവ്യവസ്ഥ എങ്ങനെ സ്വീകരിക്കണം എന്നതാണ് രണ്ടാമത്തേത് ഭക്ഷ്യ ഉൽപ്പാദനം അറിയണം അതുകൊണ്ടാണ് ഡെന്മാർക്ക് അവർ വിത്ത് ബാങ്കിൽ തുടങ്ങിയത് ഇന്ത്യയിൽ പോലും നമുക്ക് വിത്ത് ബാങ്ക് എങ്ങനെ സംഭരിക്കാം ലഡാക്കിൽ ഒരു വിത്ത് ബാങ്ക് ഉണ്ട് അതിനാൽ നമുക്ക് എങ്ങനെ വിത്തുകളുടെ ഇനം സംഭരിക്കാം അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് അത് എങ്ങനെ പുനർനിർമ്മിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റെം സെല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് അതിനാൽ വിത്ത് സംരക്ഷണവും പ്രധാനമാണ് അഡാപ്റ്റേഷൻ തന്ത്രങ്ങൾ UNFCCC രേഖയിലെ ആർട്ടിക്കിൾ 4 ൽ എല്ലാ കക്ഷികളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രസക്തമായ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക നയങ്ങളിലും പ്രവർത്തനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുക്കുകയും ഉചിതമായ രീതികൾ അവലംബിക്കുകയും ചെയ്യുക അതിനാൽ നൽകിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് സാമൂഹിക സാമ്പത്തിക സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ ഒരാൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ സാധ്യതകൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന എല്ലാ പ്രസക്തമായ രീതികളും വിലയിരുത്തുക പദ്ധതികളുടെ സമ്പദ്വ്യവസ്ഥ പൊതുജനാരോഗ്യം പരിസ്ഥിതിയുടെ ഗുണനിലവാരം എന്നിവയിലെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന നടപടികളുടെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതിന് ദേശീയതലത്തിൽ ആഘാത വിലയിരുത്തലുകൾ രൂപപ്പെടുത്തുകയും നിർണ്ണയിക്കുകയും ചെയ്യുക അവരുടെ കഴിവുകളും സാധ്യതകളും അവർ ചില നടപടികൾ കൈക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ധാക്കയിലെ ഒരു കേസ് എങ്ങനെയാണെന്നും ഇത് എങ്ങനെയാണെന്നും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം ഒരു സാമ്പത്തിക സഹായ സംവിധാനം പോലെയുള്ള ചെറുതും ചെറുതുമായ പിന്തുണാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക കമ്മ്യൂണിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാം അവർ എങ്ങനെ ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു അവരുടെ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിന്റെ വിവിധ ഭീഷണികളെ അവർ എങ്ങനെ നേരിടാൻ തുടങ്ങി അതിനാൽ ഈ സിനിമ ദരിദ്ര സമൂഹങ്ങളെക്കുറിച്ചാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വശത്തെ ഏത് ദുരന്തത്തിനും ദാരിദ്ര്യം ഒരു അടിസ്ഥാന ഘടകമാണ് അതിനാൽ എങ്ങനെ വ്യത്യസ്തമായ പിന്തുണാ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരു ഭൂവിനിയോഗ ആസൂത്രണത്തിൽ ഒരു പ്ലാനർമാർ ഇതിനെ ഒരു പ്രധാന താഴെത്തട്ടിലുള്ള സമീപനങ്ങളിലൊന്നായി കണക്കാക്കുന്നത് അവർ അതിനെ എങ്ങനെ കാണുന്നു രാഷ്ട്രീയ സാമ്പത്തിക പുനർവിതരണ മത്സരങ്ങളുടെ സങ്കീർണ്ണമായ സൈറ്റായി നഗരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സമ്പന്നമായ സങ്കീർണ്ണതയും വൈവിധ്യവും ഒരു പ്രധാന വെല്ലുവിളി അവതരിപ്പിക്കുകയും സർഗ്ഗാത്മകത വളർത്തുകയും ചെയ്യുന്നു 12 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ധാക്ക അതിവേഗം ആഗോളവൽക്കരിക്കപ്പെടുന്ന സമ്പദ്വ്യവസ്ഥയെയും അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്ത അയൽപക്കങ്ങളെയും ഉൾക്കൊള്ളുന്നു വിവിധ കാലാവസ്ഥാ കാരണങ്ങളാൽ മെച്ചപ്പെട്ട ജീവിതവും ഉപജീവനവും തേടി ഓരോ ദിവസവും ആളുകൾ നഗരത്തിലേക്ക് കുടിയേറുകയാണ് നഗരങ്ങളിൽ താമസിക്കുന്ന 5 4 ദശലക്ഷം നഗര ദരിദ്രരിൽ 63 ത്തിലധികം പേർ ധാക്കയിൽ മാത്രം താമസിക്കുന്നു പരിമിതമായതോ സേവനങ്ങൾ ലഭ്യമല്ലാത്തതോ ആയ ജനസംഖ്യയുടെ ഉയർന്ന സാന്ദ്രത ജീവിത സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുന്നു ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാന പാറ്റേൺ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഹീറ്റ് ഐലൻഡ് സൃഷ്ടിക്കുന്നതിൽ നിന്നും ധാക്കയെ ബാധിച്ചേക്കാം അവിടെ താപനില ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഡിഗ്രി കൂടുതലായിരിക്കാം FL 2543 മുതൽ 2811 വരെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള പരമ്പരാഗത കോപ്പിംഗ് സ്ട്രാറ്റജിസ് പര്യവേക്ഷണം ചെയ്യുന്നതിലും അൺപാക്ക് ചെയ്യുന്നതിലും കാര്യമായ ശ്രദ്ധ നൽകിയിട്ടുണ്ട് നഗരങ്ങളിലെ ദരിദ്രർ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്ന രീതികളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ കൂടുതൽ ആഴത്തിലാക്കുന്ന ജോലികൾ കുറവാണ് നഗരങ്ങളിലെ ദരിദ്രർ വർധിച്ച അപകടസാധ്യതകളെ എങ്ങനെ നേരിടുന്നു എന്ന് പരിശോധിക്കുന്നതിൽ നിന്ന് കാര്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന വാദത്തോടെയാണ് അവർ നഗരങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഗവേഷണത്തിൽ നിന്ന് നേടിയ അറിവ് നഗരങ്ങളിൽ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിനുള്ള തന്ത്രങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും FL 2853 മുതൽ 2954 വരെ ഗവേഷണം നിരവധി കോപ്പിംഗ് തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു ആളുകൾ നിർമ്മിത പരിതസ്ഥിതിയിൽ ശാരീരിക മാറ്റങ്ങൾ വരുത്തുകയും അയൽപക്ക തലത്തിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു വെള്ളക്കെട്ടിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് അവർ വാതിലിൻറെ മുൻവശത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കി ഫർണിച്ചറിന്റെ ഉയരം വർദ്ധിപ്പിച്ചു ഉയർന്ന സംഭരണ സൌകര്യങ്ങൾ ഒരുക്കി ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിനും ചൂട് കുറയ്ക്കുന്നതിനും മേൽക്കൂര ഫോൾസ് സീലിംഗ് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച മേലാപ്പ് എന്നിവ മറയ്ക്കുന്നതിന് കമ്മ്യൂണിറ്റി മുൻകൈയെടുത്തു സർവേയിൽ പങ്കെടുത്ത പകുതിയോളം വീടുകളിൽ വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച മേലാപ്പ് സ്ഥാപിച്ചു സമ്പാദ്യത്തിലൂടെ അവരുടെ അപകടസാധ്യത കുറച്ചു വൈവിധ്യമാർന്ന തൊഴിലുകളിൽ സമ്പാദിക്കുന്ന ഒന്നിലധികം അംഗങ്ങളുള്ള കുടുംബങ്ങൾ ഏത് ദുരന്തസമയത്തും മികച്ച പ്രകടനം കാഴ്ചവച്ചു ദുരന്തസമയത്ത് സഹായം ലഭിക്കാൻ സോഷ്യൽ നെറ്റ്വർക്ക് ആളുകളെ സഹായിച്ചു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉപജീവന അവസരങ്ങളും കാലക്രമേണ സ്വത്തുക്കൾ വർധിച്ചു ശേഖരണം അർത്ഥമാക്കുന്നത് വിപണനയോഗ്യമായ ഗാർഹിക ഉൽപന്നങ്ങളും കെട്ടിടങ്ങളും ഏറ്റെടുക്കുന്നതിനാണ് സാമഗ്രികൾ അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം നഗരതലത്തിൽ പൊരുത്തപ്പെടുത്തൽ ആസൂത്രണത്തിന്റെ ഭാവി വെല്ലുവിളികൾ സർഗ്ഗാത്മകവും വൈവിധ്യവും സങ്കീർണ്ണതയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതും സ്ഥാപിക്കുന്നതും ആയിരിക്കണം നഗരത്തിലെ ദരിദ്രർക്കുള്ള ഏത് പൊരുത്തപ്പെടുത്തൽ നടപടിയും നിലവിലെ അനുഭവങ്ങളിൽ നിന്നുള്ള വിടവ് നികത്തുന്നതിന് പ്രവർത്തിക്കേണ്ടതുണ്ട് FL 3128 മുതൽ 3400 വരെ കാലാവസ്ഥാ വ്യതിയാനവും ദാരിദ്ര്യവും ഇരട്ടിയായി തുറന്നുകാട്ടുന്നതിനോട് പ്രതികരിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് നഗര ദരിദ്രർ ഇരയാകുന്നു എന്നിരുന്നാലും അവയ്ക്ക് ഒരു നിശ്ചിത തലത്തിലുള്ള അന്തർനിർമ്മിത പ്രതിരോധശേഷിയുമുണ്ട് ആസൂത്രണ സംരംഭങ്ങളിലൂടെ ദുരന്തങ്ങളോട് പ്രതികരിക്കുന്നതിന് ശേഖരിച്ച അറിവ് തിരിച്ചറിയുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ദരിദ്രർക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും അതുപോലെ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഭൂമി കൂടുതൽ വരണ്ടതും ഇതിനകം വരണ്ടതും കൂടുതൽ വരണ്ടതും എങ്ങനെയെന്നും ഒരു തലമുറയിൽ അവർ സംസാരിച്ചു ഇത് കൃഷിവിളയെ ബാധിച്ചു ഇത് തൊഴിലിനെപ്പോലും ബാധിച്ചു അവിടെ ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ചില പ്രാദേശിക സാങ്കേതിക വിദ്യകൾ പോലും അവർ ജല മണ്ണ് സംരക്ഷണ രീതികൾ സംരക്ഷിക്കുന്നതിനുള്ള ഡാംലൂൺ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് അങ്ങനെ അവർ ഇത്തരത്തിലുള്ള കല്ല് അതിരുകളോ അല്ലെങ്കിൽ ഒരു മണ്ണിന്റെ അതിരുകളോ ഉണ്ടാക്കുന്നു അങ്ങനെ ഒന്ന് നിറയുകയും അത് മറ്റൊന്നിലേക്ക് പോകുകയും ചെയ്യുന്നു അങ്ങനെയാണ് ജലസംരക്ഷണ രീതികൾ മണ്ണ് സംരക്ഷിക്കപ്പെടാൻ അവർ കാര്യങ്ങൾ നടാൻ തുടങ്ങി ആ രീതിയിൽ സഹേൽ മേഖലയിൽ നിങ്ങൾക്കറിയാവുന്ന 15 വിളകളുടെ അവലോകനം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ സംരക്ഷണ രീതികളിലൂടെ ഇത്തരത്തിലുള്ള വിളകൾക്ക് എങ്ങനെ ചില പുനരുജ്ജീവനം ഉണ്ടായി താഴ്ന്ന പ്രദേശമായ ഡെൽറ്റ പ്രദേശമായ ഹോളണ്ട് പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഒരുതരം തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള തന്ത്രങ്ങളും ഉണ്ട് വെള്ളപ്പൊക്ക സമയത്ത് അവയെ സംരക്ഷിക്കുന്നതിനുള്ള സ്റ്റോൺ ബാരിയർസ് നിങ്ങൾക്കറിയാം പക്ഷേ അവർ ഇത് യഥാർത്ഥത്തിൽ കണക്കാക്കിയപ്പോൾ നിർമ്മാണത്തിന്റെ പ്രാരംഭ ഘട്ടം 10 വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഉപയോഗിക്കാമെന്ന് അവർ കരുതി എന്നാൽ ഇപ്പോൾ അവർ വളരെ പതിവായി ഉപയോഗിക്കുന്നു അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതായി ഇത് കാണിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടലുകൾ വളരെ വേഗത്തിൽ തെറ്റി താഴ്ന്ന പ്രദേശവും ഡെൽറ്റ മേഖലയും വികസിത രാജ്യവുമായതിനാൽ വികസ്വര തന്ത്രങ്ങൾ ഉണ്ട് കൂടാതെ ബിൽറ്റ് ഫോമിലെ ഫലങ്ങളിലൊന്ന് ഫ്ലോട്ടിംഗ് ആണ് നെതർലാൻഡിലെ വീടുകൾ ഇവ വെള്ളപ്പൊക്കത്തെ പരിഗണിക്കാതെയാണ് ഈ വീടുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു അവയ്ക്ക് പൊങ്ങിക്കിടക്കുന്നു എന്നാൽ ഈ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക നിക്ഷേപം ഏത് തരത്തിലുള്ള നിക്ഷേപമാണ് എന്ന് നോക്കേണ്ടതുണ്ട് അതെ സാങ്കേതികമായി ഇത് വളരെ കലയാണ് കലയുടെ അഭിനന്ദനാർഹമായ അവസ്ഥ പക്ഷേ ഒരാൾക്ക് ഇത് എങ്ങനെ കാണാൻ കഴിയും ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യമാണോ സാമൂഹിക ശാക്തീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള മികച്ച ബദലുകൾക്കും വേണ്ടി നിക്ഷേപിക്കുന്നതിനുപകരം അത്തരം ചെലവേറിയ സാങ്കേതികവിദ്യയിൽ നിക്ഷേപിക്കുന്നത് ശരിക്കും ബുദ്ധിയാണോ അതിനാൽ ഒരാൾക്ക് സ്വന്തം കോളിൽ എടുക്കാൻ കഴിയുന്ന ചില മസ്തിഷ്കപ്രക്ഷോഭങ്ങൾ ഇതാണ് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിലും വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും കാർഷിക മേഖലയിലെ വിവിധ നഗരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശയം ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തോട് അവർ അവരുടെ സ്വന്തം സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം സിസ്റ്റങ്ങളിലും സോഷ്യൽ ക്യാപിറ്റലുകളിലും ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു Glossary English Word Word Meaning climate ക്ലൈമറ്റ് കാലാവസ്ഥ weather വെതർ ഋതുവിശേഷം satellite imagery സാറ്റലൈറ്റ് ഇമേജറി ഉപഗ്രഹ ചിത്രം global climate ഗ്ലോബൽ ക്ലൈമറ്റ് ആഗോള കാലാവസ്ഥ mitigation മിറ്റിഗെഷൻ ലഘൂകരണം adaptation അഡാപ്റ്റേഷൻ പൊരുത്തപ്പെടുത്തൽ anticipatory ആന്റിസിപ്പേറ്ററി മുൻകൂർ reactive റിയാക്ടീവ് പ്രതികരണമുള്ള private and public adaptation പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അഡാപ്റ്റേഷൻ സ്വകാര്യവും പൊതുവുമായ പൊരുത്തപ്പെടുത്തൽ autonomous planned adaptation ഓട്ടോണോമസ് പ്ലാൻഡ് അഡാപ്റ്റേഷൻ സ്വയംഭരണ ആസൂത്രിതമായ പൊരുത്തപ്പെടുത്തൽ